വേറെ പ്രവർത്തനങ്ങൾ കൺട്രോൾ സ്രോതസ്സുകൾ ഉപയോഗിച്ച് എങ്ങനെ നിർവ്വഹിക്കാം എന്ന് കാണിച്ചു തരാം ഈ കേസ്സിൽ എങ്ങനെ ഒരു ഘടകത്തിന്റെ മൂല്യം ഉയർത്താം എന്നാണ് നമ്മൾ കണക്കാക്കുക ഉദാഹരണത്തിന് ഞാൻ ഒരു കപ്പാസിറ്റർ എടുക്കാം പക്ഷെ നിങ്ങൾക്ക് വേറെ ഏതു ഘടകം വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ വോൾടേജ് സ്രോതസ്സ് V കപ്പാസിറ്റർ C യുടെ കുറുകെ ഘടിപ്പിക്കുകയാണ് കൂടാതെ ഇത് V യുടെ ഡെറിവേറ്റീവിന്റെ C അനുപാതകത്തിൽ കറണ്ട് വലിച്ചെടുക്കും നമുക്ക് ഇതിനെ Ix എന്ന് പറയാം ഇത് kIxആയിട്ടും ഇനി എനിക്ക് ഈ രണ്ടു ടെർമിനലുകളുടെകാരക്ടറിസ്റ്റിക്സ് തമ്മിൽ മാറ്റണം എനിക്ക് ഉയർത്തണം എങ്കിൽ എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ തുടർന്നുള്ളത് ചെയ്യാം നിയന്ത്രിതമായ കറണ്ട് സ്രോതസ്സിന്റെ ഇൻപുട്ട് ശാഖ ഉപയോഗിച്ച് കപ്പാസിറ്ററിലൂടെ ഒഴുകുന്ന കറണ്ടിനെ കുറിച്ചു അറിവ് നേടും ഇനി നിങ്ങൾ നോക്കുക കപ്പാസിറ്ററിനെ സംബന്ധിച്ചുള്ള ഒന്നിനും മാറ്റം വന്നിട്ടില്ല കപ്പാസിറ്ററിന് കുറുകെ ഉള്ള വോൾടേജ് ഇപ്പോഴും V തന്നെ ആണ് കാരണം ഈ ഭാഗം ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത് വെറും ഒരു കമ്പി ആണ് അപ്പോൾ കപ്പാസിറ്ററിന് കുറുകെ ഉള്ള വോൾടേജ് ഇപ്പോഴും V തന്നെ ആണ് അപ്പോൾ കപ്പാസിറ്ററിലൂടെ ഉള്ള കറണ്ടും CdVdtതന്നെ ആണ് ഇനി കറണ്ട് നിയന്ത്രിതമായ കറണ്ട് സ്രോതസ്സിനെ നോക്കിയാലും അത് kCdVdtതന്നെ ആണ് ഇനി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ കറണ്ടിനെ നിയന്ത്രിക്കട്ടെ കൂടാതെ വോൾടേജ് സ്രോതസ്സിനു കുറുകെ ഘടിപ്പിക്കട്ടെ അതായത് കപ്പാസിറ്ററിനെ നിയന്ത്രിക്കുന്നവ സ്പഷ്ടമായി നമുക്ക് കാണാൻ സാധിക്കും വോൾടേജ് സ്രോതസ്സിൽ നിന്ന് വലിച്ചെടുത്ത കറണ്ട് k1CdVdtആണെന്ന് നമുക്ക് ഈ കമ്പിയിൽ CdVdtഉണ്ട് ആ കമ്പിയിൽkCdVdtഉണ്ട് അപ്പോൾ മൊത്തം വലിക്കുന്ന കറണ്ട് k1CdVdtആണ് ഇനി ഞാൻ ഈ മുഴുവൻ സർക്യൂട്ടിനെയും ഒരു പെട്ടിയിൽ അടച്ചുകെട്ടട്ടെ എന്നിട്ട് ഈ രണ്ടു ടെർമിനലുകളും മാത്രം നോക്കട്ടെ എനിക്ക് എന്ത് ഉണ്ട് ഇത് പറയുന്നത് ഞാൻ വോൾടേജ് V ഈ മൊത്തം പെട്ടിയിൽ ഘടിപ്പിച്ചാൽ ഇത് കറണ്ട് വലിച്ചെടുക്കും അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ മൊത്തം പെട്ടി ഒന്ന് k യുടെ കൂടെ കൂട്ടി ചേർത്ത് C തവണ അനുപാതകം ആയിട്ടുള്ള ഒരു കപ്പാസിറ്റൻസ് പോലെ ആണ് അപ്പോൾ അത് പോലെ ആണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഞാൻ രണ്ടു പെട്ടികൾ നിങ്ങൾക്ക് തന്നാൽ ഒന്ന് ഒരു കപ്പാസിറ്റൻസ് C യും ഒരു k മൂല്യം ഉള്ള കറണ്ട് നിയന്ത്രിതമായ കറണ്ട് സ്രോതസ്സും അടങ്ങിയിട്ടുള്ളത് ആണെങ്കിൽ ഇതുപോലെ മറ്റേത് ഒരു k1×C മൂല്യം കപ്പാസിറ്റൻസ് ഉള്ളതും ഇവ രണ്ടും വേർതിരിച്ചറിയാൻ ഒരു മാർഗ്ഗവും ഇല്ല ഏത് ഏതാണെന്ന് രണ്ടു ടെർമിനലിലെയും വോൾട്ടേജ്ജോ കറണ്ടോ അളന്നാലും നമുക്ക് പറയുവാൻ സാധിക്കില്ല അതാണ് യഥാർത്ഥത്തിൽ തുല്യത സർക്യൂട്ട് എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ വളരെ സങ്കീർണ്ണമായ സർക്യൂട്ട് ഉണ്ടെന്ന് വരാം നമുക്ക് പറയാം ടെർമിനലിന് കുറുകെ വോൾട്ടെജ്ജും കറണ്ടും അളക്കുക എന്നിട്ട് V യ്ക്ക് തുല്യമായി I മടങ്ങ് ആയിട്ടുള്ള ഒരു ബന്ധം ആയിട്ട് വരിക കൂടാതെ നിങ്ങൾക്ക് അറിയാം ഈ ബന്ധം ഒരു റെസിസ്റ്ററിന്റെ ഭാഗമാണെന്ന് അതിനാൽ ഈ പെട്ടിക്കു അകത്തുള്ള സങ്കീർണ്ണമായ സർക്യൂട്ട് മറ്റേ സർക്യൂട്ടിൽ നിന്ന് വേർതിരിക്കുവാൻ സാധിക്കില്ല എന്ന് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഒരൊറ്റ റെസിസ്റ്റർ ആണ് അതിനാൽ പെട്ടി തുറക്കാതെ നിങ്ങൾക്കു പറയുവാൻ സാധിക്കില്ല അതിന്റെ അകത്തു എന്താണെന്ന് ടെർമിനൽ കാരക്ടറിസ്റ്റിക്സ് സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അത് വെറും ഒരു റെസിസ്റ്റർ ആണ് അത് പോലെത്തന്നെ ഈ പ്രത്യേക കേസിൽ ടെർമിനൽ കാരക്ടറിസ്റ്റിക്സ് സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അത് വെറും ഒരു കപ്പാസിറ്റർ ആണ് അതിനാൽ നമുക്ക് ഇപ്പോൾ ഈവിധം ഘടകത്തെ ഉയർത്താൻ ആണെങ്കിൽ നമുക്ക് വോൾടേജ് നിയന്ത്രിതമായ കറണ്ട് സ്രോതസ്സ് ഉപയോഗിച്ച് ചെയ്യാം ഇതിന്റെ ഒരു ഉദാഹരണമാണ് വളരെ പ്രസിദ്ധമായി നമ്മൾ എപ്പോഴും സർക്യൂട്ടുകളിൽ കാണാറുള്ളത് കൂടുതൽ ചർച്ച ചെയ്യാതെ തന്നെ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളെ ഇത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പറയാം അളവ് കൂട്ടുന്നതായ k എന്ന ഒരു ഘടകം ഉണ്ട് വോൾടേജ് നിയന്ത്രിതമായ വോൾടേജ് സ്രോതസ്സിന് ഇനി ഞാൻ ചില കാര്യങ്ങൾ ചെയ്യട്ടെ ഞാൻ ഈ രണ്ടു ഭാഗങ്ങൾ തമ്മിൽ ഘടിപ്പിക്കട്ടെ ഇതിന്റെ ഇടയിൽ ഒരു റെസിസ്റ്റൻസ് R ഘടിപ്പിക്കട്ടെ ഇനി ഇതിനെ മുഴുവൻ ആയും ഒരു പെട്ടിയിൽ ആക്കട്ടെ ഇനി എനിക്ക് താൽപര്യം ഉള്ളത് ഈ രണ്ടു ടെർമിനലുകളുടെ ഇടയിൽ ഉള്ള തുല്യത കാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കുന്നതിൽ ആണ് അപ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടു ടെർമിനലുകളുടെ ഇടയിൽ ഉള്ള തുല്യത കാരക്ടറിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് ഈ രണ്ടു ടെർമിനലുകള്ളിൽ നിങ്ങൾക്ക് ഒരു പെട്ടി ഉണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതു എന്ന് വെച്ചാൽ കറണ്ടും വോൾട്ടേജ്ജും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണം അതായത് കറണ്ടും വോൾട്ടേജ്ജും ഈ രണ്ടു ടെർമിനലുകള്ളിൽ വെച്ചിട്ടാണ് അളക്കുന്നത് അപ്പോൾ അതാണ് തുല്യമായ സ്വഭാവം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തുല്യത സർക്യൂട്ട് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇത് ചെയ്യുവാനായി ഒന്നെങ്കിൽ V എന്ന വോൾടേജ് സ്രോതസ്സ് പ്രയോഗിക്കുക അല്ലെങ്കിൽ പകരമായി കറണ്ട് I കണ്ടുപിടിക്കുക ഒരു I എന്ന കറണ്ട് സ്രോതസ്സും വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രയോഗിക്കാം എന്നിട്ട് V കണ്ടുപിടിക്കുക ഇത് രണ്ടും സാധ്യമാണ് ചില പശ്ചാത്തലത്തിൽ ഇവയിൽ ചിലത് കൂടുതൽ ഉചിതമാണ് എന്നിരുന്നാലും ഇവ രണ്ടും ഏറ്റവും ഒത്തതാണ് ഒരിക്കൽ ഇത് ചെയ്താൽ കറണ്ടും വോൾട്ടേജ്ജും തമ്മിലുള്ള ബന്ധം നമുക്ക് അറിയാൻ സാധിക്കും കൂടാതെ തുല്യത സർക്യൂട്ട് എന്താണെന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും ഈ പ്രത്യേക കേസിൽ ഞാനൊരു വോൾടേജ് V പ്രയോഗിക്കട്ടെ കാരണം ഈ V x കിർച്ചോഫ് വോൾടേജ് ലോ വഴി V യ്ക്ക് തുല്യമാണ് ഇതിന്റെ വളരെ ലളിതമായ പ്രയോഗം ഇതിനു കുറുകെ ഉള്ള വോൾടേജ് k Vആണ് പക്ഷെ വീണ്ടും കിർച്ചോഫ് വോൾടേജ് ലോ പ്രകാരം റെസിസ്റ്ററിനു കുറുകെ ഉള്ള വോൾടേജ് ഈ ധ്രുവത്വത്തിൽ V k V ആണ് അതിനാൽ സ്രോതസ്സിൽ നിന്ന് വലിച്ചെടുത്ത കറണ്ട് റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടിന് തുല്യമാണ് അതായതു വോൾടേജ് ഭാഗം റെസിസ്റ്റൻസ് മൂല്യം ഇത് V തവണ 1 ന്യൂനം k ഭാഗം R നിങ്ങൾക്ക് അറിയാം ഓംസ് ലോ വഴി എന്ത് കാര്യം V ആയിട്ട് ഗുണിച്ചാൽ അത് ഈ രണ്ടു ടെർമിനലുകളുടെ ഇടയിൽ ഉള്ള കണ്ടക്ടൻസ് ആണ് അതിനാൽ ഇതിന്റെ ഇടയിൽ ഉള്ളത് കണ്ടുപിടിക്കുന്നത് കണ്ടക്ടൻസ്സിന്റെ മൂല്യം 1 kR അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ മൂല്യം R1 k നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉള്ള ഒരു റെസിസ്റ്റർ R വോൾടേജ് നിയന്ത്രിതമായ വോൾടേജ് സ്രോതസ്സുമായി ഘടിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ വ്യാപ്തി മാറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം എന്ത് സംഭവിക്കും ഇവിടെ k പൂജ്യത്തെക്കാളും കുറവാണെങ്കിൽ ഞാൻ ഇതിനെ റെസിസ്റ്റൻസ് Reffective എന്ന് വിളിക്കുകയാണ് Reffective R നേക്കാളും ചെറുതായിരിക്കും ഇനി 0 ത്തിന്റെയും 1 ന്റെയും ഇടയിൽ ആണെങ്കിൽ Reffective R നേകാളും കൂടുതൽ ആയിരിക്കും കൂടാതെ k1ആണെങ്കിൽ Reffective അനന്തമായിരിക്കും അതായത് അത് ഓപ്പൺ സർക്യൂട്ട് പോലെ ആയിരിക്കും k1ആണെങ്കിൽ എന്താണ് അർത്ഥം ഈ വോൾടേജ് മറ്റേ വോൾടേജ് ആയിട്ട് ഒന്ന് തന്നെ ആണ് R ന് കുറുകെ ഒരു വോൾട്ടേജ്ജും ഇല്ല ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും അത് കറണ്ട് ഒന്നും തന്നെ വലിക്കുന്നില്ല കാരണം അതിനു കുറുകെ ഉള്ള വോൾടേജ് 0 ആണ് അവസാനമായി k ഒന്നിനേക്കാളും കൂടുതൽ ആണെങ്കിൽ Reffective നെഗറ്റീവ് ആകും അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റർ എടുക്കാം അത് ചെറുതാണെന്ന് ആക്കുക അത് വലുതാണെന്ന് ആക്കുക അത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണെന്നും ആക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ്സിനെ പോലെയും ആക്കാം ഈ സന്ദർഭത്തിൽ ഇതൊരു പ്രത്യേക ഉദ്ദേശ്യത്തിനു അല്ല പക്ഷെ സാധ്യതകൾ വിവരിക്കുകയാണ് പിന്നീട് നിങ്ങൾ ആക്റ്റീവ് സർക്യൂറ്റുകളിലേക് പോകുമ്പോൾ ഈ ആശയങ്ങളിൽ ചിലത് നിങ്ങൾ പ്രായോഗികമായ സർക്യൂറ്റുകളിൽ ഉപയോഗിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് റെസിസ്റ്ററിന്റെ മൂല്യം പല കാരണങ്ങളാൽ വേണ്ടി വരും എന്നിട്ട് ഈ കാര്യങ്ങൾ ആണ് ഉപയോഗിക്കുക അപ്പോൾ ചുരുക്കത്തിൽ കൺട്രോൾഡ് സ്രോതസ്സുകൾ മോഡലിങ്ങിന് ഉപയോഗിക്കുന്നു പിന്നെ സങ്കീർണ്ണമായ സർക്യൂട്ടുകൾ ലളിതമായ മോഡലുകൾ ആക്കാനും അസാധാരണമായ കൃത്യങ്ങൾ ഉദ്ഗ്രഥനം ചെയ്യാനും ഉപയോഗിക്കുന്നു